നമസ്കാരം അവസാന സെഷനിൽ ആർസി സർക്യൂട്ടുകളുടെ സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു അതിനാൽ അവിടെ മുതൽ ചർച്ച ആരംഭിക്കും കൂടാതെ ആർസി സർക്യൂട്ട് പ്രതികരണം പ്രത്യേകിച്ചും വോൾട്ടേജും കറന്റ് മൂല്യവും കാണും തുടർന്ന് ആർഎൽ സർക്യൂട്ടിനായി മുന്നോട്ട് പോകും കൂടാതെ ആർഎൽ സർക്യൂട്ടിനുള്ള സ്റ്റെപ്പ് പ്രതികരണം എന്തായിരിക്കുമെന്ന് കാണും അതിനാൽ അവസാന ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും നോക്കാം സമയം 0 ന് തുല്യമാകുമ്പോൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഈ പ്രതിഭാസത്തെ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനും തുടർന്ന് ആർസി സർക്യൂട്ടും ഉള്ള വോൾട്ടേജ് സ്രോതസ്സായി പ്രതിനിധീകരിക്കാം ചിത്രത്തിൽ കാണുന്ന ആർസി സർക്യൂട്ടിനായുള്ള സമവാക്യം മെഷ് സമവാക്യങ്ങളുടെ സഹായത്തോടെയാണെന്ന് നമ്മൾ കണ്ടെത്തി ഇത് കണ്ടു പിടിച്ചാൽ സമയം t 0 ആണെങ്കിൽ അതേപടി തുടരുമെന്ന് മനസ്സിലാക്കി സമയം t 0 ആയിരിക്കുമ്പോൾ ഈ മൂല്യം ആയ ഈ പദപ്രയോഗത്തിന്റെ സഹായത്തോടെ കണക്കാക്കാം അതിനാൽ ഇത് മുൻ പ്രഭാഷണത്തിൽ ചർച്ചചെയ്തു ഇപ്പോൾ ഉറവിട വോൾട്ടേജ് ആണോ എന്ന് നോക്കാം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പ്ലോട്ട് കാണപ്പെടും ഈ പ്രത്യേക സമവാക്യം t 0 ന് തുല്യമാണെന്ന് കാണുകയാണെങ്കിൽ മൂല്യം വർദ്ധിക്കാൻ തുടങ്ങും അതിനാൽ 0 ന് മുമ്പുള്ളതിനേക്കാൾ കുറവായി കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജിന്റെ മൂല്യം ആയി നിലനിർത്തും അതിനാൽ എന്താണ് ചെയ്തത് ഞങ്ങൾ വോൾട്ടേജ് ആയി സൂക്ഷിക്കുകയും അതിനുശേഷം അത് ആയിരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ വിവിധ ടി യുടെ മൂല്യം 1 2 3 എന്നിങ്ങനെ എടുക്കുകയാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആവശ്യമുള്ള കർവ് ലഭിക്കും ഇപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം 5 ടൈം കോൺസ്റ്റന്റ്ന് ശേഷം സംഭവിക്കുന്ന സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യത്തിലാണ് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം ഉറവിട വോൾട്ടേജായ വോൾട്ടേജിന് തുല്യമായിരിക്കും ഇപ്പോൾ നമുക്ക് മറ്റൊരു സ്റ്റേറ്റ് എടുക്കാം കപ്പാസിറ്റർ തുടക്കത്തിൽ ചാർജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം 0 എന്നാണ് അതിനാൽ എന്താണ് ചെയ്യേണ്ടത് ഈ സാഹചര്യത്തിൽ നിങ്ങൾ മൂല്യം നൽകണം അതിനാൽ സമയം t പൂജ്യത്തേക്കാൾ കൂടുതൽ ആയിരിക്കുമ്പോൾ ലഭിക്കുന്നത് ആണ് അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ കർവ് 0 മുതൽ ആരംഭിക്കും അതിനാൽ ഇതുപോലുള്ള വക്രത നിങ്ങൾ കാണും അവിടെ അത് വോൾട്ടേജിൽ വീണ്ടും സ്ഥിരത കൈവരിക്കും സമയം 0 നേക്കാൾ വലുതും സമയം 0 ൽ താഴെയാണെങ്കിൽ 0 ഉം ആയിരിക്കും അതിനാൽ അങ്ങനെയാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കർവ് കാണപ്പെടും അവസാനമായി ഇത് ന്റെ മൂല്യത്തിലേക്ക് സ്ഥിരത കൈവരിക്കും അത് സോഴ്സ് വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ കപ്പാസിറ്ററിലൂടെ വൈദ്യുതധാര കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വോൾട്ടേജ് സമവാക്യം ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അതിനാൽ കറന്റ് i C ഇപ്പോൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മൂല്യം ആയി ലഭിക്കും മാത്രമല്ല പൂജ്യത്തേക്കാൾ കൂടുതലുള്ള സമയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ u ചേർക്കും കാരണം ഇത് ഒരു യൂണിറ്റ് ഫംഗ്ഷനാണ് സമയം 0 നെക്കാൾ വലുതാകുമ്പോൾ അതിന്റെ മൂല്യം 0 നേക്കാൾ വലുതാണ് അതിനാൽ 0 എന്നതിനേക്കാൾ വലിയ സമയത്തിന് ന് തുല്യമായ ഈ സമവാക്യത്തെ u ആയി പ്രതിനിധീകരിക്കാം ഇപ്പോൾ ഈ 2 സമവാക്യങ്ങൾ കണ്ടാൽ ഈ സമവാക്യം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമവാക്യം കാണുമ്പോൾ ഇത് ഗണ്യമായി കുറയുന്നു കാരണം വ്യക്തമാണ് കാരണം കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് സ്ഥിരത കൈവരിക്കുമ്പോൾ സോഴ്സ് വോൾട്ടേജിന് തുല്യമാണ് കറന്റ് ഒടുവിൽ നശിക്കും അതിനാൽ പ്രതികരണങ്ങൾക്ക് എന്ത് സംഭവിക്കും ഇത് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിനുള്ള പ്രതികരണമായിരിക്കും സമയം ഇൻഫിനിറ്റി പ്രവണത കാണിക്കുന്ന സമയത്ത് Vs മൂല്യത്തിലേക്ക് സ്ഥിരീകരിക്കും കറന്റ് ൽ നിന്ന് ആരംഭിക്കും അതിനാൽ മൂല്യം t 0 ന് തുല്യമാണെങ്കിൽ ഇവിടെ t എന്നത് 0 ന് തുല്യമാണ് അതായത് എന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അത് അതിവേഗം ക്ഷയിക്കുന്നു അതിനാൽ ഇത് സാധാരണയായി ടൈം കോൺസ്റ്റന്റ് 5 ശേഷം സ്ഥിരതാമസമാക്കിയ ശേഷം പരിഹരിക്കപ്പെടും കാരണം 5 ടൈം കോൺസ്റ്റന്റ്ൽ നമുക്ക് ലഭിക്കുന്ന മൂല്യം 1 ശതമാനത്തിൽ കുറവാണെന്ന് അനുമാനിക്കുന്നു അതായത് ഇത് ഏകദേശം 0 മൂല്യത്തിലേക്ക് മാറുന്നു അതിനാൽ 5 സമയ സ്ഥിരതയ്ക്ക് ശേഷം ഈ കേസിലെ വൈദ്യുതധാരയുടെ മൂല്യം അല്ലെങ്കിൽ ഈ കേസിലെ വോൾട്ടേജ് സ്ഥിരമായ ഒരു സ്റ്റേറ്റ് മൂല്യത്തിലേക്ക് മാറുമെന്ന ഏകദേശ കണക്കാണ് ഇത് ഇപ്പോൾ ആർസി അല്ലെങ്കിൽ ആർഎല്ലിന്റെ സ്റ്റെപ്പ് പ്രതികരണം കണ്ടെത്തുന്നതിനും ഒരു ഇതര രീതി ഉണ്ട് കാരണം ഇത് രണ്ട് തരം സർക്യൂട്ടുകൾക്കും ബാധകമാണ് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ആയിരുന്നു 0 എന്നതിനേക്കാൾ വലിയ സമയത്തിന് ഇപ്പോൾ ഈ സമവാക്യം കണ്ടാൽ സമവാക്യത്തിൽ 2 പ്രധാന ഘടകങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇത് v എന്ന് എഴുതാം ഇവിടെ എന്നിവ സർക്യൂട്ടിന്റെ സ്വാഭാവിക പ്രതികരണമാണ് കാരണം നിങ്ങൾ സോഴ്സ് ഇല്ലാത്ത ആർസി സർക്യൂട്ട് സമവാക്യം ഓർമിച്ചാൽ സമവാക്യത്തിൽ നൽകിയിട്ടുള്ളതിന് സമാനമാണ് അതിനാൽ 5 ടൈം കോൺസ്റ്റന്റ് ശേഷം ഏതാണ്ട് 0 ആയി ക്ഷയിക്കുന്ന പ്രതികരണത്തിന്റെ ഭാഗമായതിനാൽ ഇതിനെ ക്ഷണികമായ പ്രതികരണം അല്ലെങ്കിൽ സ്വാഭാവിക പ്രതികരണം എന്ന് വിളിക്കുന്നു കാരണം ഇത് ഒരു സോഴ്സ് ഫ്രീ അല്ലെങ്കിൽ ബാഹ്യ ഉറവിടം പ്രയോഗിക്കാത്ത സർക്യൂട്ടിന്റെ സോഴ്സ് ഇല്ലാത്ത പ്രതികരണമോ ആണ് ഇപ്പോൾ നിർബന്ധിത പ്രതികരണം എന്ന് അറിയപ്പെടുന്നു കാരണം ഇത് ഒരു ബാഹ്യശക്തി പ്രയോഗിക്കുമ്പോൾ സർക്യൂട്ട് നിർമ്മിക്കുന്നു അതിനാൽ വോൾട്ടേജ് ഉറവിടം അല്ലെങ്കിൽ കറന്റ് ഉറവിടം പോലുള്ള ഏതെങ്കിലും ബാഹ്യ ഉറവിടം പ്രയോഗിക്കുമ്പോൾ അത് സർക്യൂട്ടിന് ഒരു ബാഹ്യ ഉറവിടമായി പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ എന്ന പദം നിർബന്ധിത പ്രതികരണമല്ലാതെ മറ്റൊന്നുമല്ല സർക്യൂട്ട് ആവേശഭരിതമായതിനുശേഷം ഇത് വളരെക്കാലം നിലനിൽക്കുന്നതിനാൽ ഇത് സ്ഥിരമായ ഒരു സ്റ്റേറ്റ് പ്രതികരണമായി പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇത് സർക്യൂട്ടിന്റെ സ്ഥിരമായ സ്റ്റേറ്റ് പ്രതികരണമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ സ്ഥിരമായ സ്റ്റേറ്റ് പ്രതികരണം സമയം ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുന്ന സമയത്തെ സർക്യൂട്ടിന്റെ പ്രതികരണമാണ് അതിനാൽ V എന്നത് Vs പ്ലസ് V0 മൈനസ് Vs ഗുണനം e പവർ മൈനസ് ടി ബൈ ട്ടോ സമയം ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജാണ് Vs അതുപോലെ എന്താണ് വി 0 സമയം t 0 മൈനസിന് തുല്യമാകുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യമാണ് V0 അതിനാൽ ഇവിടെ കാണുന്ന ഈ സമവാക്യത്തെ പ്രതിനിധീകരിക്കാം

അതിനാൽ ഇത് സർക്യൂട്ടിന്റെ ആദ്യ പ്രതികരണത്തിന്റെയും സ്വാഭാവിക പ്രതികരണത്തിന്റെയും സംയോജനമല്ലാതെ മറ്റൊന്നുമല്ല ഇവിടെ സമയം 0 പ്ലസിന് തുല്യമാകുമ്പോൾ പ്രാരംഭ വോൾട്ടേജാണ് V0 കാരണം കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയില്ല ഇതിനർത്ഥം സമയം 0 മൈനസിന് തുല്യമാകുമ്പോഴും സമയം ടി 0 പ്ലസിന് തുല്യമാകുമ്പോഴും V0 സമാനമായിരിക്കും V∞ എന്നത് കപ്പാസിറ്ററിന് കുറുകെയുള്ള സ്ഥിരമായ അവസ്ഥയോ വോൾട്ടേജിന്റെ അന്തിമ മൂല്യമോ മാത്രമാണ് കൂടാതെ ആർസി സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ചിത്രത്തിൽ a എന്നത് ധാരാളം സമയമായി സ്വിച്ചിന്റെ സ്ഥാനമാണ് ഇപ്പോൾ t എന്നത് സ്വിച്ച് a ൽ നിന്ന് b ലേക്ക് നീക്കുന്നതിന് തുല്യമാണ് അപ്പോൾ t 0 നേക്കാൾ കൂടുതലുള്ള സമയത്ത് v വോൾട്ടേജ് കണ്ടെത്തുകയും സമയം t 1 സെക്കൻഡിനും 4 സെക്കൻഡിനും തുല്യമാകുമ്പോൾ വോൾട്ടേജിന്റെ മൂല്യം കണക്കാക്കുകയും വേണം ഇപ്പോൾ ഈ പ്രത്യേക സർക്യൂട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ട മൂല്യം സമയം 0 മൈനസിന് തുല്യമാകുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജിന്റെ മൂല്യം എന്താണ് അതായത് സ്വിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് നീക്കുന്നതിന് തൊട്ടുമുമ്പ് ഇപ്പോൾ സർക്യൂട്ട് കണ്ടാൽ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും മൂല്യം എന്തായിരിക്കും സമയം 0 ന് തുല്യമാണ് വോൾട്ടേജ് ഉറവിട മൂല്യം 24 വോൾട്ട് ഇപ്പോൾ 3 കിലോ ഓമും 5 കിലോ ഓം റെസിസ്റ്റൻസ്മുണ്ട് കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് 5 കിലോ ഓം റെസിസ്റ്റൻസ് വോൾട്ടേജല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗിക്കാം കപ്പാസിറ്ററിന് കുറുകെയുള്ള 15 വോൾട്ട് വരുന്ന വോൾട്ടേജ് കണ്ടെത്തുക ഇപ്പോൾ കപ്പാസിറ്റർ വോൾട്ടേജിന് തൽക്ഷണം മാറാൻ കഴിയാത്തതിനാൽ നമുക്ക് 15 വോൾട്ട് എന്ന് പറയാൻ കഴിയും അതിനാൽ v ന്റെ മൂല്യം കണ്ടെത്തി ഇപ്പോൾ 0 നേക്കാൾ ഉയർന്ന സമയത്തേക്ക് സ്വിച്ച് അടച്ചിരിക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ സ്വിച്ച് അടയ്ക്കുകയാണെങ്കിൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കപ്പാസിറ്റർ ഒരു റെസിസ്റ്റൻസും ഒരു വോൾട്ടേജ് ഉറവിടവുമായി കണക്റ്റുചെയ്തിരിക്കുന്ന സർക്യൂട്ട് കാണപ്പെടും കപ്പാസിറ്ററിന്റെ മൂല്യം 0 5 മില്ലി ഫാരഡ് ആണെങ്കിൽ ഈ മൂല്യം 4 കിലോ ഓം വോൾട്ടേജ് 30 വോൾട്ട് സ്വിച്ച് എയിൽ നിന്ന് ബിയിലേക്ക് നീക്കുമ്പോൾ ഈ അവസ്ഥയായിരിക്കും അതിനാൽ ഈ സർക്യൂട്ട് കണ്ടാൽ ഇവയാണ് സർക്യൂട്ടിന്റെ 2 ടെർമിനലുകൾ അതിന്റെ വലതുവശത്ത് കപ്പാസിറ്ററിന് കുറുകെയുള്ള പ്രയോഗിക്കുന്ന തെവെനിൻ തുല്യമല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ എന്ത് പറയാൻ കഴിയും 0 ൽ കൂടുതലുള്ള സമയത്ത് സർക്യൂട്ടിന് തുല്യമായ തെവെനിൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കാണപ്പെടും അതിനാൽ ഈ ഭാഗം നിങ്ങളുടെ തെവെനിന് തുല്യമായിരിക്കും അതിനാൽ എന്നത് 4 കിലോ ഓം അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാൻ കഴിയും അതിനാൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും τ എന്നത് C ആയി കണക്കാക്കുന്നു അപ്പോൾ കപ്പാസിറ്ററിന്റെ മൂല്യം എന്താണ് കാരണം ടൈം കോൺസ്റ്റന്റ് മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് കപ്പാസിറ്റൻസിന്റെ മൂല്യം 5 മില്ലി ഫാരഡ് നിങ്ങൾ ലളിതമാക്കുമ്പോൾ ടൈം കോൺസ്റ്റന്റ് മൂല്യം 2 സെക്കൻഡ് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള സർക്യൂട്ട് കൂടുതൽ നേരം സൂക്ഷിക്കുമ്പോൾ കപ്പാസിറ്ററിന് 30 വോൾട്ട് വോൾട്ടേജ് ചാർജ്ജ് ചെയ്യും V ഇൻഫിനിറ്റി 30 വോൾട്ടുകളല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാൻ കഴിയും അതിനാൽ വോൾട്ടേജ് v യുടെ സ്ഥിരമായ മൂല്യം 30 വോൾട്ട് ആണ് ഇതിനകം കണക്കാക്കിയ v മൂല്യം 15 ആണ് അതിനാൽ നിങ്ങൾ ഈ 2 ഘടകങ്ങളുടെയും മൂല്യവും ടൈം കോൺസ്റ്റന്റ് മൂല്യവും ഇടുന്നു നിങ്ങൾക്ക് ഏത് സമയത്തും വോൾട്ടേജിന്റെ മൂല്യം ലഭിക്കും ഇപ്പോൾ സമയം ടി 1 ന് തുല്യമാണ് നിങ്ങൾ ടി യുടെ മൂല്യം 1 ആയി ഇടുക നിങ്ങൾക്ക് 1 ന് തുല്യമായ വോൾട്ടേജ് v യുടെ മൂല്യം 20 വോൾട്ട് ലഭിക്കും 902 വോൾട്ട് ടി 4 ന് തുല്യമാകുമ്പോൾ നിങ്ങൾ ലളിതമാക്കിയാൽ 27 97 വോൾട്ട് ലഭിക്കും സമയം 1 മുതൽ 4 വരെ മാറുമ്പോൾ കപ്പാസിറ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് ഉയരുന്നത് നിങ്ങൾ കാണും ഒടുവിൽ അത് 30 വോൾട്ട് ആയ സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യത്തിലേക്ക് ഉറപ്പിക്കും ഇപ്പോൾ ഒരു ആർഎൽ സർക്യൂട്ടിനായുള്ള സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ ഇടതുവശത്തുള്ള ചിത്രം കണ്ടാൽ ഒരു റെസിസ്റ്റൻസും ഇൻഡക്ടറും വോൾട്ടേജ് ഉറവിടവുമായി ശ്രേണിയിലാണ് സമയം പൂജ്യത്തിന് തുല്യമാണെങ്കിൽ സ്വിച്ച് അടച്ചിരിക്കുന്നു അതായത് സർക്യൂട്ടിൽ വോൾട്ടേജ് പ്രയോഗിക്കുന്നു ഒടുവിൽ സ്വിച്ചിംഗ് പ്രതിഭാസങ്ങൾ ഉൾപ്പെടെയുള്ള തുല്യ സർക്യൂട്ടിനെ ആയി പ്രതിനിധീകരിക്കാമെന്ന് നിങ്ങൾ കാണും അത് വോൾട്ടേജ് ഉറവിടവും തുടർന്ന് R ഉം ഇൻഡക്റ്റർ L ഉം ആയിരിക്കും ഇൻഡക്റ്ററിനായി ഏത് സമയത്തും t ന്റെ കറന്റ് I ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ടെന്ന് കരുതുക ഏത് സമയത്തും t ഇൻഡക്റ്ററിന് കുറുകെയുള്ള വോൾട്ടേജ് അതിനാൽ നമുക്ക് എന്തുചെയ്യാൻ കഴിയും സർക്യൂട്ടിന്റെ RL പ്രതികരണം കണ്ടെത്താൻ 2 രീതികൾ ഉപയോഗിക്കാം ആദ്യത്തേത് കിർചോഫിന്റെ നിയമം പ്രയോഗിക്കാൻ കഴിയും എന്നതാണ് അതിനർത്ഥം നോഡിൽ ഇത് കറന്റ് ആണെന്ന് പറയാം ഈ കറന്റ് ആണെന്ന് നമുക്കറിയാം അത് സമയത്തെ ആശ്രയിച്ചുള്ള കറന്റ് അല്ലാതെ മറ്റൊന്നുമല്ല കെസിഎൽ പ്രയോഗിക്കുക നമുക്ക് എഴുതാം

ഇത് സർക്യൂട്ടിലെ കിർചോഫിന്റെ കറന്റ് നിയമ ആപ്ലിക്കേഷനായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് ഇത് ലളിതമാക്കാനും ഇൻഡക്റ്റർ കറന്റിന്റെ മൂല്യം കണ്ടെത്താനും കഴിയും അത് സമയത്തിന്റെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമല്ല ഇത് വിശദീകരിക്കാനും ഉപയോഗിക്കാനുമുള്ള എളുപ്പമുള്ള ഒരു ഇതര സാങ്കേതികത ഉപയോഗിച്ചും ഇത് പരിഹരിക്കാനാകും അതിനാൽ പ്രതികരണം സ്വാഭാവിക കറന്റും നിർബന്ധിത കറന്റും ആയിരിക്കും എന്ന് നമുക്ക് പറയാം സ്വാഭാവിക പ്രതികരണം A ആണെന്ന് പറയാം കാരണം ബാഹ്യശക്തി പ്രയോഗിക്കാത്തതിനാൽ സ്വാഭാവിക പ്രതികരണം എല്ലായ്പ്പോഴും ക്ഷയിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അതിനാൽ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് എന്തായാലും ക്രമേണ അത് 0 ആയി ക്ഷയിക്കും അതിനാൽ അത് എല്ലായ്പ്പോഴും എക്സ്പോണൻഷ്യൽ ആയി ക്ഷയിക്കുന്നു അതിനാൽ സ്വാഭാവിക പ്രതികരണം ഇതുപോലെ പ്രതിനിധീകരിക്കും A എന്നത് നമ്മൾ നിർണ്ണയിക്കേണ്ട ഒരു സ്ഥിരാങ്കമാണ് τ അത് ടൈം കോൺസ്റ്റന്റ് അല്ലാതെ മറ്റൊന്നുമല്ല അത് L R ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ നിർബന്ധിത പ്രതികരണം എന്തായിരിക്കും സ്വിച്ച് അടച്ചതിനുശേഷം വളരെക്കാലം കഴിഞ്ഞ് കറന്റ് മൂല്യമാണ് നിർബന്ധിത പ്രതികരണം അതിനാൽ നിങ്ങൾ സർക്യൂട്ട് കാണുമ്പോൾ സ്വാഭാവിക പ്രതികരണം 5 സമയ സ്ഥിരതയ്ക്ക് ശേഷം ക്ഷയിക്കും സ്ഥിരമായ അവസ്ഥയിൽ സമയം ഇൻഫിനിറ്റി പ്രവണത കാണിക്കുന്നത് ഇൻഡക്റ്റർ ഒരു ഷോർട്ട് സർക്യൂട്ടായി പ്രവർത്തിക്കും അതിനാൽ നിർബന്ധിത പ്രതികരണത്തിന്റെ മൂല്യം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അടുത്തതായി സ്ഥിരമായ A ന്റെ മൂല്യം കണ്ടെത്തണം കണ്ടക്ടറിലൂടെ ഒഴുകുന്ന പ്രാരംഭ വൈദ്യുതധാരയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അതായത് സമയം t എന്നത് 0 മൈനസിന് തുല്യമാണ് അതിനർത്ഥം തൊട്ടുമുമ്പുള്ള സമയം സ്വിച്ച് പ്രയോഗിക്കുന്നത് അർത്ഥമാക്കുന്നത് സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുകയും വോൾട്ടേജ് ഉറവിടം പ്രയോഗിക്കുകയും ചെയ്യുന്നു എന്നാണ് അതിനാൽ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് ആണെന്ന് അനുമാനിക്കുന്നു വോൾട്ടേജ് ഉറവിടത്തിൽ നിന്ന് വരില്ല കാരണം ഇത് ഇപ്പോഴും പ്രയോഗിച്ചിട്ടില്ല തുടക്കത്തിൽ പ്രയോഗിച്ചതുപോലുള്ള മറ്റേതെങ്കിലും ഉറവിടത്തിൽ നിന്ന് ഇത് വരും ഇപ്പോൾ അത് സർക്യൂട്ടിൽ ഉണ്ട് മറ്റ് ചില പ്രതിഭാസങ്ങൾ കാരണം നമുക്ക് ഇൻഡക്ടറിൽ കറന്റ് പ്രവാഹമുണ്ട് കൂടാതെ 5 എന്ന് പറയാൻ കഴിയും കാരണം ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് തൽക്ഷണം മാറാൻ കഴിയില്ലെന്ന് നമുക്കറിയാം അതിനാൽ സർക്യൂട്ടിൽ സംഭവിച്ച ചില പ്രതിഭാസങ്ങൾ കാരണം തുടക്കത്തിൽ 0 എന്നതിന് തുല്യമായ കറന്റ് പ്രവാഹം ഉണ്ടായിരുന്നു ഇത് ഇൻഡക്റ്ററിലൂടെയുള്ള വൈദ്യുത പ്രവാഹം മാറ്റാൻ കഴിയാത്തതിനാൽ ഇത് പരിപാലിക്കപ്പെടും അതിനാൽ സമയം 0 ന് തുല്യമാകുമ്പോൾ എന്ത് സംഭവിക്കും സമയത്തിന്റെ മൂല്യം 0 ന് തുല്യമാണെങ്കിൽ ഇത് 1 ആയി മാറും അത് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ അതിനാൽ A യുടെ മൂല്യം നൽകിയാൽ നിങ്ങൾക്ക് കറന്റ് ലഭിക്കും അതിനാൽ ഈ ചിത്രം കണ്ടാൽ യെ യേക്കാൾ കുറവാണെന്ന് കരുതുകയും ചെയ്യുന്നുവെങ്കിൽ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് പ്രതികരണം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ ആയിരിക്കും അതിനാൽ ആർഎൽ സർക്യൂട്ടിന്റെ പൂർണ്ണ പ്രതികരണം എന്ന് നമുക്ക് പറയാൻ കഴിയും സമയം ഇൻഫിനിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ആ കറന്റ് എഴുതാം t എന്നത് 0 ന് തുല്യമാകുമ്പോൾ കറന്റ് മൂല്യം i ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുന്ന സമയം കറന്റ് എന്നത് i∞ ആണ് അതിനാൽ ഇവയെ കറന്റ് i യുടെ പ്രാരംഭ അന്തിമ മൂല്യങ്ങൾ എന്ന് വിളിക്കുന്നു അതിനാൽ തുടക്കത്തിൽ ഇൻഡക്റ്ററിലൂടെ കറന്റ് പ്രവാഹം ഇല്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം i പൂജ്യത്തിന് തുല്യമാണ് സമയം 0 ൽ കുറവാണെങ്കിൽ i പൂജ്യമായതിനാൽ നിങ്ങളുടെ കറന്റ് i എപ്പോൾ വേണമെങ്കിലും പ്രതിനിധീകരിക്കാം 0 എന്നതിനേക്കാൾ ഉയർന്ന സമയത്തേക്ക് ഇത് അതിനാൽ i നേക്കാൾ വലുതായതിനാൽ അത് ഗണ്യമായി ക്ഷയിക്കുന്നുണ്ടെങ്കിലും ഇത് ലേക്ക് സ്ഥിരമാകുമ്പോൾ ഇവിടെ ഇത് ഇങ്ങനെയായിരിക്കും കാരണം ഈ മൂല്യം ഗണ്യമായി വർദ്ധിക്കുന്നു നിങ്ങൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പ്രയോഗിച്ചാൽ അത് അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയാം i 0 ന് തുല്യമാകുമ്പോൾ ഇതിനെ RL സർക്യൂട്ടിന്റെ ഒരു ഘട്ട പ്രതികരണമായി വിളിക്കും അതിനാൽ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന വൈദ്യുതധാരയാണിത് ഇപ്പോൾ വോൾട്ടേജ് v L ഗുണനം di ബൈ dt അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്കറിയാം അതിനാൽ മുമ്പ് ലഭിച്ച കറന്റ് I നെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് vt യുടെ മൂല്യം ലഭിക്കും അത് Vs ഗുണനം e പവർ മൈനസ് t ബൈ τ അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഇപ്പോൾ t 0 ന് തുല്യമായാൽ എന്ത് സംഭവിക്കും കണ്ടക്ടറിന് കുറുകെയുള്ള വോൾട്ടേജ് vf ആയിരിക്കും അത് എക്സ്പോണൻസിയായി 0 ആയി ക്ഷയിക്കും അതിനാൽ ഇത് നമ്മുടെ കപ്പാസിറ്റർ പ്രതികരണത്തിന് വിപരീതമാണ് കപ്പാസിറ്റർ വോൾട്ടേജ് സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യത്തിലേക്ക് ഉയരുമ്പോൾ ഇൻഡക്റ്റർ വോൾട്ടേജ് 0 ആയി കുറയുകയും അതുപോലെ തന്നെ ഈ കേസിൽ കറന്റ് ഒരു സ്ഥിരമായ സ്റ്റേറ്റ് മൂല്യത്തിലേക്ക് മാറുകയും കപ്പാസിറ്ററിന്റെ കാര്യത്തിൽ കറന്റ് 0 ആയി മാറുകയും ചെയ്യും അതുവഴി L c എന്നിവയ്ക്കുള്ള വോൾട്ടേജ് കറന്റ് പ്രതികരണം പരസ്പരം വിപരീതമാണെന്ന് പറയാൻ കഴിയും ഇപ്പോൾ ആർഎൽ സർക്യൂട്ടിന്റെ പ്രതികരണം മനസിലാക്കാൻ നമുക്ക് 1 ഉദാഹരണം നോക്കാം 0 നേക്കാൾ വലിയ സമയത്തേക്ക് അതിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ സ്വിച്ച് വളരെക്കാലമായി അടച്ചിരിക്കുകയാണെന്നും അത് 0 ന് തുല്യമായ സമയത്ത് തുറന്നിട്ടുണ്ടെന്നും അനുമാനിക്കുന്നു അതിനാൽ 0 ൽ താഴെയുള്ള സമയത്തേക്ക് സ്വിച്ച് അടച്ചിരിക്കുന്നു മാത്രമല്ല ഇത് വളരെക്കാലം സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെന്നതിനർത്ഥം ഇൻഡക്റ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നാണ് സ്വിച്ച് അടച്ചതിനാൽ ഈ 3 ഓം റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ആണ് അപ്പോൾ t എന്ന സമയത്ത് കറന്റ് I ന്റെ മൂല്യം എന്താണ് 2 ഓം റെസിസ്റ്റൻസിലൂടെ 10 വോൾട്ട് പ്രയോഗിക്കുന്ന കെവിഎൽ പ്രയോഗിച്ചുകൊണ്ട് ലളിതമായി കണ്ടെത്താനാകും ഇത് സർക്യൂട്ടിലെ കറന്റ് മൂല്യം നിർവചിക്കും അതിനാൽ I0 എന്നത് 5 ആമ്പിയർ മാത്രമാണ് സർക്യൂട്ട് ഓഫ് ചെയ്തതിനുശേഷവും ഇൻഡക്റ്റർ കറന്റ് തൽക്ഷണം മാറ്റാൻ കഴിയില്ലെന്ന് നമുക്കറിയാം സമയം 0 ന് തുല്യമാകുമ്പോൾ സർക്യൂട്ട് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറന്റ് I0 ആണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് അല്ലെങ്കിൽ സർക്യൂട്ടിൽ സ്വിച്ച് ഓഫ് ചെയ്തതിനു ശേഷം വൈദ്യുതധാരയ്ക്ക് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ വൈദ്യുതധാരയുടെ മൂല്യം 5 ആമ്പിയർ ആയിരിക്കും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഇത് തുറന്നിരിക്കുന്നു 2 ഓം 3 ഓം റെസിസ്റ്റൻസുകൾ സീരീസിലായിരിക്കും അതിനാൽ ഈ കേസിൽ എന്ത് സംഭവിക്കും t ഇൻഫിനിറ്റിയ്ക്ക് തുല്യമാകുമ്പോൾ കറന്റ് i∞ എന്തായിരിക്കും നിങ്ങൾ ഈ ചിത്രം കാണുകയും സ്വിച്ച് ഉപയോഗിച്ച് വളരെക്കാലം വോൾട്ടേജ് പ്രയോഗിക്കുകയും ചെയ്താൽ ഇൻഡക്റ്റർ വീണ്ടും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും തുടർന്ന് ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് 2 ഓം 3 ഓം റെസിസ്റ്റൻസുകളുടെ സീരീസ് കോമ്പിനേഷനിലൂടെ നയിക്കപ്പെടും അതിനാൽ നിങ്ങളുടെ i∞ 2 ആമ്പിയർ മാത്രമായിരിക്കും അതിനാൽ നിങ്ങളുടെ തെവെനിൻ എക്വിവാലെന്റ് 10 വോൾട്ട് 5 ഓം റെസിസ്റ്റൻസിന് സീരീസ് ആയിരിക്കും അതിനാൽ ഇത് ഇൻഡക്റ്റർ ഭാഗത്തുനിന്ന് തുല്യമായ തെവെനിൻ ആയിരിക്കും അതിനാൽ Rth 5 ഓം അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ Rth എഴുതാം ഇപ്പോൾ സമയ സ്ഥിരമായ τ വിന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അത് LR L ന്റെ മൂല്യം 13 എച്ച് Rth 5 ആണ് നിങ്ങൾക്ക് 115 സെക്കൻഡായി τ ലഭിക്കും ഇപ്പോൾ നിങ്ങളുടെ കൈയിൽ എല്ലാ മൂല്യങ്ങളും ഉണ്ട് നിങ്ങൾ ഈ മൂല്യങ്ങൾ സമവാക്യത്തിലും പദപ്രയോഗത്തിലും ഉൾപ്പെടുത്താം അതിനാൽ ഇത് i∞ 2 i 5 τ 1 by 15 ആയി മാറും അതിനാൽ ഇൻഡക്റ്ററിലൂടെ ഒഴുകുന്ന കറന്റ് മൂല്യം 0 എന്നതിനേക്കാൾ വലിയ സമയത്തേക്ക് ആയി ലഭിക്കും അതിനാൽ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു ഈ സെഷനിൽ ആർസിയുടെ സ്റ്റെപ്പ് പ്രതികരണത്തെക്കുറിച്ചും ആർഎൽ സർക്യൂട്ടിനെക്കുറിച്ചും ചർച്ചചെയ്തു അതിനാൽ അടുത്ത സെഷനിൽ സ്റ്റെപ്പ് പ്രതികരണവുമായി ബന്ധപ്പെട്ട പ്രഭാഷണം തുടരും കൂടാതെ രണ്ടാമത്തെ ഓർഡർ സർക്യൂട്ടുകളും കാണും